സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള മൂക് എൻ എൽ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ രവിചന്ദ്രനാണ് ഈ കോഴ്സിലുടനീളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ ഐഐടി കാൺപൂരിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് വിഭാഗത്തിൽ നിന്നുള്ള ഇംഗ്ലീഷ് പ്രൊഫസറാണ് അപ്പോൾ ഇന്നലത്തെ ദിവസം എങ്ങനെയായിരുന്നു സംഘർഷ പരിഹാരത്തിനായി ഇന്നലെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ നൽകി നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ തയ്യാറാക്കാൻ കഴിഞ്ഞോ ഞാൻ നൽകിയ നുറുങ്ങുകളുടെ അടിസ്ഥാനത്തിൽ പരിഹാരങ്ങളുമായി വരാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു ഞാൻ നിങ്ങൾക്ക് പരിഹാരം നൽകാൻ തുടങ്ങുന്നതിനുമുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിന്റെ ഹൈലൈറ്റുകൾ നമുക്ക് വേഗത്തിൽ നോക്കാം മുമ്പത്തെ പ്രഭാഷണത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സംഘർഷങ്ങൾ പരിഹരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിന്റെ ജീവിതം ഒന്നുമില്ലാത്തതായിരിക്കണമെന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്നും ഞാൻ നിന്നോടു പറഞ്ഞു സംഘർഷങ്ങൾക്ക് പകരം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശക്തിയും മൃദുവായ കഴിവുകളും നൽകാൻ ദൈവത്തോട് ആവശ്യപ്പെടണം തർക്കങ്ങൾ പരിഹരിക്കുക സംഘർഷങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ സമാധാനപരമായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിനുപകരം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ സംഘർഷം പരിഹരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനമുണ്ടാകൂ അത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു കോർപ്പറേറ്റ് തരത്തിലുള്ള സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലായ്പ്പോഴും ഒരു വിൻ വിൻ സമീപനം ലക്ഷ്യമിടണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു ഇപ്പോൾ ഒരു വിൻ വിൻ സമീപനം ലക്ഷ്യമിടുന്നതിന് ഇരുവശത്തേക്കും നോക്കാൻ ശ്രമിക്കണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതൊരു സംഘട്ടനത്തിലും രണ്ട് വശങ്ങളുണ്ട് കൂടാതെ ഒരു മൂന്നാം വശവും ഉണ്ട് ചിലപ്പോൾ മൂന്നിൽ കൂടുതൽ വശങ്ങളുമുണ്ട് സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പങ്കാളികൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ കഴിയണം അതേസമയം സാധ്യമായ മൂന്നാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ആകസ്മികത നൽകണം വൈരുദ്ധ്യ പരിഹാര വൈദഗ്ധ്യത്തെക്കുറിച്ചും ഏതെങ്കിലും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട പ്രക്രിയയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിച്ചു ആ സന്ദർഭത്തിൽ വീണ്ടും ഞാൻ നിങ്ങൾക്ക് രണ്ട് സംഘർഷ സാഹചര്യങ്ങൾ നൽകി രണ്ട് ചെറിയ കഥകൾ ഒരു സംഘർഷം അത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ സംഭവിച്ചു മറ്റൊന്ന് അച്ഛനും മകനും തമ്മിൽ സംഭവിച്ചു സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കണം നിങ്ങൾ മസ്തിഷ്കപ്രക്ഷോഭം നടത്താൻ ശ്രമിക്കണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കാര്യം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം വസ്തുതകൾ നേടുക നിങ്ങൾ പോകണം സജീവമായി കേൾക്കുമ്പോൾ നിങ്ങൾ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വ്യക്തിയല്ല നിങ്ങൾ കോപം ശമിപ്പിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കണം അവർക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി യഥാർത്ഥത്തിൽ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പ് അവരെ ശാന്തരാക്കാൻ ശ്രമിക്കണം ആശയവിനിമയ തടസ്സങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ നിങ്ങളുടെ സഹാനുഭൂതിയുടെ കഴിവുകൾ ഉപയോഗിക്കണം നിങ്ങൾ സംഘർഷത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ അനുകമ്പ കാണിക്കണം മറ്റേ വ്യക്തിയുമായി തുടർന്ന് നിങ്ങൾ വൈജ്ഞാനിക പുനഃസംഘടനയ്ക്ക് ശ്രമിക്കണം നിങ്ങൾ യുക്തിസഹവും ബോധപൂർവ്വവുമായ രീതിയിൽ മുഴുവൻ കാര്യങ്ങളും പുനസംഘടിപ്പിക്കാൻ ശ്രമിക്കണം പെർസെപ്ഷനൽ പിശകുകൾ ഉണ്ടാകുമെന്ന വസ്തുതയ്ക്ക് ആകസ്മികത നൽകുകയും നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നു പെർസെപ്ഷനൽ കാര്യം എങ്ങനെ പുനസംഘടിപ്പിക്കാമെന്ന് ബന്ധപ്പെട്ട വ്യക്തിയോട് ചൂണ്ടിക്കാണിക്കുക യാഥാർത്ഥ്യം കാണാൻ ശ്രമിക്കുന്ന വിധത്തിൽ അവർ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങൾ അവരുമായി ഫലങ്ങൾ ചർച്ച ചെയ്യുകയും തുടർന്ന് ഒരു പരിഹാരം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും വേണം അത് എല്ലാവർക്കും അനുകൂലമായ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് സാഹചര്യങ്ങൾ നൽകി ആദ്യത്തേത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതും വീണ്ടും രണ്ടും തമ്മിലുള്ളതുമാണ് രണ്ട് ആളുകൾ തമ്മിലുള്ള വ്യക്തിപരമായ സംഘർഷങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഇവ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ അവയെ വൈകാരിക സംഘർഷങ്ങൾ എന്ന് വിളിക്കുന്നു അതായത് വൈകാരിക സംഘർഷങ്ങൾ അവ വളരെ അപകടകരവും പിന്നീട് കൈകാര്യം ചെയ്യാൻ വളരെ അപകടകരവുമാണ് പക്ഷേ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അവ ടൈം ബോംബ് പോലെ പൊട്ടിത്തെറിക്കുകയും പിന്നീട് ബന്ധത്തിന് പൂർണ്ണമായ കേടുപാടുകൾ വരുത്തുകയും ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് അത് പാലിക്കാൻ കഴിയാത്തവിധം ഇപ്പോൾ ഞാൻ നൽകിയ രണ്ട് കേസുകളിലും ആദ്യത്തേത് ഭർത്താവും ഭാര്യയും തമ്മിൽ പറയുക അവർ വളരെ സ്നേഹമുള്ള ദമ്പതികളാണെന്ന് അറിയുകയും തുടർന്ന് സംഘർഷം ആരംഭിക്കുകയും ചെയ്യുന്നു തർക്കങ്ങൾ നിങ്ങൾ എങ്ങനെ പരിഹരിച്ചു ഇത് പരിശോധിച്ച് ചില നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അത് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും തുടർന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ പ്രക്രിയ എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തോ പിന്നെ വിവാഹമോചനം നേടുന്നതിൽ നിന്ന് ഈ ദമ്പതികളെ നിങ്ങൾ എങ്ങനെ തടഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ തുടങ്ങുമായിരുന്നു എന്നാൽ ഞാൻ വ്യായാമം ചെയ്യാൻ തുടങ്ങുന്ന എന്റെ ഘട്ടം ഘട്ടമായുള്ള രീതി നിങ്ങളോട് പറയുന്നതിനുമുമ്പ് സംഘർഷം പരിഹരിക്കുന്നതിനുള്ള പ്രക്രിയ നിങ്ങൾക്ക് രസകരവും പ്രധാനപ്പെട്ടതുമായ ഒന്ന് മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സംഘർഷ പരിഹാരത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമല്ലെങ്കിലും ബെർട്രാൻഡ് റസ്സൽ ചർച്ച ചെയ്ത ആശയം എന്നാൽ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്ന വളരെ രസകരമായ ഒരു കഥയുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ ഏതെങ്കിലും വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താനും അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനും കഴിയും ബെർട്രാൻഡ് റസ്സൽ രസകരമെന്നു പറയട്ടെ നിങ്ങൾക്കറിയാമെങ്കിൽ അദ്ദേഹം ഒരു പ്രശസ്ത തത്ത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം സമാധാനത്തിനായി പോരാടി പക്ഷേ അദ്ദേഹം മൂന്ന് തവണ വിവാഹം കഴിച്ചു തുടർന്ന് മൂന്ന് തവണ വിവാഹമോചനം നേടി നാലാം തവണ വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം പ്രസിദ്ധമായ മാര്യേജ് ആൻഡ് മോറൽസ് എന്ന പുസ്തകവും എഴുതി ആകസ്മികമായി അദ്ദേഹം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി ഇപ്പോൾ നിരവധി സംഘർഷങ്ങൾക്ക് വിധേയനായ അത്തരമൊരു ചലനാത്മകമായ വ്യക്തിത്വം പിന്നെ അത് നിറഞ്ഞിരിക്കുന്നു അറിവും ജ്ഞാനവും അറിവും ജ്ഞാനവും എന്ന മുഴുവൻ ലേഖനവും വായിക്കുന്നത് മൂല്യവത്താണ് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിങ്ങളുടെ സോഫ്റ്റ് കഴിവുകൾ വികസിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നാൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഭാഗം ഒരു എപ്പിസോഡ് ഒരു കഥ എന്നിവയിൽ മാത്രമേ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ അതിനാൽ ഞാൻ അത് നിങ്ങൾക്കായി ഹ്രസ്വമായി വിവരിക്കട്ടെ തുടർന്ന് നിങ്ങൾ അതേ കാര്യം പ്രയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ചർച്ച ചെയ്ത രണ്ട് കേസുകളിലേക്കോ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന അത്തരം ഏതെങ്കിലും കേസിലേക്കോ ഇത് നോക്കൂഃ അദ്ദേഹം പറയുന്നു രണ്ട് പുരുഷന്മാരുടെ കാര്യം പരിഗണിക്കുക അതിനാൽ അവരുടെ പേര് പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അവർ പരസ്പരം വെറുക്കുന്ന മിസ്റ്റർ എ മിസ്റ്റർ ബി എന്ന് പറയുന്നു പരസ്പര വിദ്വേഷം പരസ്പരം നാശത്തിലേക്ക് നയിക്കുന്നു നിങ്ങൾ മിസ്റ്റർ എ യുടെ അടുത്തേക്ക് പോയി നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ ബിയെ വെറുക്കുന്നത് എന്ന് ചോദിക്കുന്നുവെന്ന് കരുതുക അദ്ദേഹം നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്ന ഒരു പട്ടികയോ മിസ്റ്റർ ബിയുടെ തിന്മകളോ നൽകുമെന്നതിൽ സംശയമില്ല അതിനാൽ മിസ്റ്റർ ബി എ എന്നിവയെക്കുറിച്ചുള്ള എല്ലാ മോശം കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പട്ടിക നൽകും ഇപ്പോൾ ഇത് ഭാഗികമായി ശരിയാണെന്നും എന്നാൽ ഭാഗികമായി തെറ്റാണെന്നും റസ്സൽ പറയുന്നു ബി എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കാൻ ശ്രമിക്കുകയും നമ്മൾ അവയെ അതിശയോക്തി കലർത്തുകയും ചെയ്യുന്നതിനാൽ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞങ്ങളുടെ സ്വന്തം തെറ്റുകൾ നോക്കുന്നതിനേക്കാൾ ഇപ്പോൾ നിങ്ങൾ മിസ്റ്റർ ബിയുടെ അടുത്തേക്ക് പോകുമെന്ന് കരുതുക അവൻ നിങ്ങൾക്ക് നൽകും സത്യത്തിന്റെയും നുണയുടെയും തുല്യമായ മിശ്രിതമുള്ള മിസ്റ്റർ എയുടെ തിന്മകളുടെ സമാനമായ ഒരു പട്ടിക അതിനാൽ നിങ്ങൾ രണ്ട് പട്ടികകൾ ശേഖരിച്ചു ഒന്ന് എയിൽ നിന്ന് ഒന്ന് ബിയിൽ നിന്ന് എന്നാൽ രണ്ടും പൂർണ്ണമായും ശരിയല്ല എന്നാൽ അത് പൂർണ്ണമായും മറ്റുള്ളവരുടെ തിന്മകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മിസ്റ്റർ എ യുടെ അടുത്തേക്ക് തിരിച്ചുവന്ന് പറയുമെന്ന് കരുതുക അത് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും മിസ്റ്റർ ബി നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ചും പറയുന്നു നിങ്ങൾ മിസ്റ്റർ ബിയുടെ അടുത്തേക്ക് പോയി സമാനമായ ഒരു പ്രസംഗം നടത്തുക ആദ്യ ഫലം സംശയമില്ല അവർക്ക് തുടക്കത്തിൽ അനുഭവപ്പെടുന്ന പരസ്പര വിദ്വേഷം വർദ്ധിപ്പിക്കും ഓ അവൻ എന്നെക്കുറിച്ച് ഒരുപാട് മോശം കാര്യങ്ങൾ പറയുന്നു അതിനാൽ വിദ്വേഷം വർദ്ധിക്കുന്നു കാരണം ഓരോരുത്തരും മറ്റുള്ളവരുടെ അനീതി കണ്ട് ഭയപ്പെടുക അയാൾക്കെങ്ങനെയാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുക ഞാൻ അങ്ങനെയല്ല അവൻ അങ്ങനെയാണ് അതായിരുന്നു ആദ്യ പ്രതികരണം എന്നാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് മതിയായ ക്ഷമയും മതിയായ ബോധ്യപ്പെടുത്തലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും മനുഷ്യന്റെ ദുഷ്ടതയുടെ സാധാരണ പങ്ക് മറ്റൊരാൾക്ക് മാത്രമാണെന്നും അവരുടെ ശത്രുത ഇരുവർക്കും ദോഷകരമാണെന്നും പരസ്പരം ബോധ്യപ്പെടുത്തുന്നതിൽ അതായത് എല്ലാ മനുഷ്യർക്കും ഈ നല്ല വശവും ചീത്ത വശവും തിന്മകളും പിന്നെ സദ്ഗുണങ്ങളുമുണ്ട് ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള പരിമിതികൾ ഉണ്ടാകുന്നത് സാധാരണമാണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തി കലർത്തിയതിനാൽ മറ്റേയാൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും ഇരുവരോടുമുള്ള ശത്രുത വളരെ ദോഷകരമാണ് അപ്പോൾ നിങ്ങൾക്ക് ബന്ധത്തിൽ ഐക്യം കൊണ്ടുവരാൻ കഴിയും ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും സംഘർഷ പരിഹാരത്തെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന രസകരമായ ഒരു നുറുങ്ങ് ഉണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ആളുകളിലും നിങ്ങൾ ജ്ഞാനത്തിന്റെ ഒരു ഭാഗം പകർന്നിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഓർക്കുക ഓരോ സംഘർഷ പരിഹാരത്തിൻറെയും അവസാനം നിങ്ങൾ കൂടുതൽ ബുദ്ധിയുള്ളവരും ബുദ്ധിയുള്ളവരും സന്തുഷ്ടരും സന്തുഷ്ടരുമായിത്തീരുന്നു ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്ത ആദ്യത്തെ സംഘർഷത്തിലേക്ക് മടങ്ങുക അത് പരിഹരിക്കുന്നതിന് ഞാൻ നിർദ്ദേശിച്ചു സാധ്യമാകുന്നിടത്തോളം ഏത് സംഘർഷവും അനുകൂലമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അവർ പോരാടുന്ന സ്ഥലത്തിനുപകരം അവരെ എവിടെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ സാഹചര്യത്തിൽ നിങ്ങൾ ശിൽപയുടെയും കിഷോറിന്റെയും അയൽക്കാരനായതിനാൽ നിങ്ങൾ അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഒരു വാരാന്ത്യത്തിൽ അവർ വിശ്രമിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരു ജന്മദിന പാർട്ടി സൃഷ്ടിക്കുകയും തുടർന്ന് അവരെ പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അവർ ഒരു പിക്നിക്കിന് പോകാൻ ഇഷ്ടപ്പെടുന്നുവെന്നും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ശിൽപ പോകാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് കിഷോർ അവളെ വളരെക്കാലമായി കൊണ്ടുപോകുന്നില്ല അതിനാൽ നിങ്ങൾ അത് ക്രമീകരിക്കുക അവളെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ കിഷോറിനെ പ്രേരിപ്പിക്കുക തുടർന്ന് നിങ്ങൾ അവിടെ പോകുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പോൾ അത്തരമൊരു സംഭാഷണത്തിന് അനുകൂലമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക ഇപ്പോൾ നിങ്ങൾ അവരെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ കോപം ശമിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ട് പരസ്പരം സംസാരിക്കാൻ തുടങ്ങുക ചിലപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് അവരുടെ കോപം ജ്വലിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇത് ഇല്ലാതാക്കണം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും നമുക്ക് അവരെ ഗെയിമുകൾ കളിക്കാൻ പ്രേരിപ്പിക്കാം വാസ്തവത്തിൽ സംഘർഷ പരിഹാര ഗെയിമുകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട് 100 ഗെയിമുകളും 200 ഗെയിമുകളും എന്നാൽ പിന്നെ 2 പങ്കാളികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾക്കിടയിൽ 2 സ്നേഹനിധികളായ ദമ്പതികൾ അതിനാൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും സത്യം അല്ലെങ്കിൽ ധൈര്യം പോലുള്ള ലളിതമായ കളി കളിക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് പകിടയോ മറ്റോ ഉണ്ടായിരിക്കാം തുടർന്ന് ഓരോ തവണയും ആരുടെയെങ്കിലും അവസരം വരുമ്പോൾ ഒന്നുകിൽ ആ വ്യക്തി സത്യം സംസാരിക്കണം അല്ലെങ്കിൽ മറ്റ് പങ്കാളികൾ പറയുന്ന എന്തെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടണം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ ഊഴം വരുമ്പോഴെല്ലാം അവർക്ക് പരസ്പരം സത്യം പുറത്തുകൊണ്ടുവരാൻ കഴിയും നമുക്ക് അവർക്ക് ഒരു ടീം ടാസ്ക് നൽകാം ഉദാഹരണത്തിന് കളിക്കാൻ നിങ്ങൾക്കൊപ്പം മറ്റൊരാളെ വിളിക്കാം ഒരു ടെന്നീസിൽ ഡബിൾസ് ചെയ്യുകയും തുടർന്ന് നിങ്ങൾക്ക് അവരെ ടീം പങ്കാളികളായി മാറ്റുകയും ചെയ്യാം ഇപ്പോൾ ഇത് അവരെ വീണ്ടും സഹകരിക്കാനും ഏകോപിപ്പിക്കാനും സഹായിക്കും അങ്ങനെ അവർ വിജയിക്കാൻ ശ്രമിക്കണം എന്ന തോന്നൽ ഉണ്ടാകും അതിനാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് ഒരു ഗ്രൂപ്പിൽ ചേരാനും തുടർന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനും അവർ തയ്യാറല്ലെങ്കിൽ മസ്തിഷ്കപ്രക്ഷോഭം പ്രവർത്തിച്ചേക്കില്ല പരസ്പരം എന്നാൽ റസ്സൽ നിർദ്ദേശിച്ച രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് വസ്തുതകൾ ലഭിക്കും നിങ്ങൾക്ക് ചിലരോട് കാര്യങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാക്കാൻ ആവശ്യപ്പെടാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അവർ പരസ്പരം വെറുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് അവരോട് ചോദിക്കാം അവർ പരസ്പരം ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങളും അവർ ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങളും പട്ടികപ്പെടുത്തുക അവർ പരാമർശിക്കേണ്ടത് നിർബന്ധമാണെന്ന് നിങ്ങൾ പറയുന്നു സാധ്യമെങ്കിൽ മുൻഗണന നൽകാൻ നിങ്ങൾക്ക് അവരോട് പറയാം നിങ്ങളുടെ ഭർത്താവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് ശിൽപയിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ് തിരിച്ചും എന്നിട്ട് നിങ്ങൾക്ക് ഇരുവർക്കും പൊതുവായ ചില ചോദ്യങ്ങൾ ചേർക്കാനും കഴിയും എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർപ്പിനെതിരെ വിവാഹം കഴിച്ചത് നിങ്ങൾ വിവാഹം കഴിക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ല പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതെന്താണ് നിങ്ങളെ ഒരുമിച്ച് ചേരാൻ പ്രേരിപ്പിച്ചത് എന്താണ് അതിനാൽ അവർ പരസ്പരം ശരിക്കും സ്നേഹിച്ച ആ മഹത്തായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് അവരെ സഹായിക്കും പിന്നെ നിങ്ങൾ അവരോട് ജോലിയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കിഷോറിനോട് എന്തുകൊണ്ട് പങ്കിടുന്നില്ല എന്നതുപോലുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയാത്തതെന്നും ജോലിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം വിമുഖത കാണിക്കുന്നതെന്നും നിങ്ങൾ കണ്ടെത്തുന്നു അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങൾ ശിൽപയ്ക്ക് ശരിക്കും വെളിപ്പെടുത്തലായിരിക്കും കാരണം ഒന്നുകിൽ അവിടെ ഒരു സമ്മർദ്ദമാണോ അതോ ശല്യപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടോ അത് പങ്കിടേണ്ടതില്ലെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു അത് അവളെ വളരെയധികം വേദനിപ്പിക്കുമെന്ന് അവൾ കരുതി ഒരുപക്ഷേ അദ്ദേഹം വളരെ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷേ അദ്ദേഹത്തിന് ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം പിന്നെ അദ്ദേഹം അത് ചെയ്യുന്നില്ല അവൾക്ക് അവനിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു അത് തന്നെ അലോസരപ്പെടുത്തുന്നു പക്ഷേ അത് അവളോട് പറയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ശിൽപയോട് നിങ്ങൾക്ക് വീട്ടിൽ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാം കിഷോറിന്റെ ദീർഘകാല അഭാവം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ടിവി കാണുന്നത് മാത്രം മതിയാകുമോ അതോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബിയിൽ താൽപ്പര്യമുണ്ടോ അതിനാൽ കിഷോറിനെപ്പോലുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പോലും അവൻറെ അഭാവത്തിൽ അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലായിരിക്കാം ഇപ്പോൾ റസ്സൽ നിർദ്ദേശിച്ചതുപോലെ അവരുടെ അനുമതിയില്ലാതെ നിങ്ങൾക്ക് പട്ടിക കൈമാറ്റം ചെയ്യാം അനുമതി ആ സമയത്ത് ഉള്ള സമ്മർദ്ദത്തിന്റെ അളവിനെ ആശ്രയിച്ച് തുടർന്ന് കാണിക്കുക അഞ്ച് പോയിന്റുകൾ നോക്കുന്ന പരസ്പരം നിങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ ഇപ്പോഴും പരസ്പരം പ്രണയത്തിലാണെന്ന് ഇത് കാണിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമല്ല അടുത്തിടെ സംഭവിച്ച പെരുമാറ്റ മാറ്റങ്ങൾ കാരണം പരസ്പരം ചില സാഹചര്യങ്ങൾ മൂലമാകാം എന്നിട്ട് നിങ്ങൾ അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് സാഹചര്യങ്ങൾ എന്തായിരിക്കാം എന്തായിരിക്കാം എന്ന് കണ്ടെത്തുക ഇത് അവരെ പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുത്തുകയും പ്രത്യേകിച്ച് കിഷോറിനെ ആശയവിനിമയമില്ലാത്തവനാക്കുകയും ചെയ്തു ഇപ്പോൾ ആക്റ്റീവ് റിഫ്ലെക്റ്റീവ് ലിസണിംഗ് ചെയ്യുക അവർക്ക് പരസ്പരം എന്താണ് പറയാനുള്ളതെന്നും ആരാണ് സംഘർഷത്തിന് കാരണമായതെന്നും കേൾക്കുക ഇപ്പോൾ വീണ്ടും ഇവിടെ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വ്യക്തിയല്ല ആരാണ് ഇത് ആദ്യം ചെയ്തത് ശിൽപാഃ കിഷോറിനൊപ്പം ചേരരുത് ഓ ശിൽപയാണ് ഇത് ചെയ്തതെന്ന് പറയരുത് അവളെ കുറ്റപ്പെടുത്തരുത് തിരിച്ചും അത് കിഷോർ ആണെങ്കിൽ അവളോടൊപ്പം ചേരരുത് അവനെ കുറ്റപ്പെടുത്തരുത് ആരെയും കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ ഇവിടെയുള്ളത് എന്നാൽ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ അവിടെയുണ്ട് ഇവിടെ പ്രശ്നം ബന്ധം എത്തിച്ചേർന്നു എന്നതാണ് അവർ വിവാഹമോചനത്തിന്റെ തലത്തിലെത്തിയ അത്തരം സംഘർഷവും സമ്മർദ്ദപൂരിതവുമായ സാഹചര്യം ഇപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ നിർത്താൻ പോകുന്നു അതിനാൽ പക്ഷം പിടിക്കുകയോ ഏകപക്ഷീയമായ കുറ്റങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യരുത് എന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ സഹാനുഭൂതിയുള്ള വ്യക്തിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുക അത് ചെയ്യുന്നതിന് മുമ്പ് അവർ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് അവർക്ക് കോപം നഷ്ടപ്പെടുകയും പരസ്പരം ആക്രോശിക്കാൻ തുടങ്ങുകയും അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നു നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും അറിയില്ല പിന്നെ പ്രശസ്തമായ സംഭാഷണം നിങ്ങൾക്ക് എന്നെ ഒരിക്കലും മനസ്സിലാകില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കറുകളാണ് അത് നിങ്ങളെ പുരോഗതി കൈവരിക്കാൻ അനുവദിക്കില്ല അതിനാൽ നിങ്ങൾ അവരെ വളരെ സൌമ്യമായും മാന്യമായും തടയേണ്ടതുണ്ട് നിങ്ങൾ പ്രശ്നം സൃഷ്ടിക്കുന്നതിനല്ല പരിഹാരത്തിനുവേണ്ടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം നിങ്ങളുടെ സഹാനുഭൂതിയുള്ള കഴിവുകൾ ഉപയോഗിക്കുക അവർ പരസ്പരം അനുകമ്പ കാണിക്കേണ്ടത് പ്രധാനമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് ആ കഴിവുകളും ഉപയോഗിക്കുക നിങ്ങൾ പ്രശ്നങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുവെന്നും അവരെ സഹായിക്കാൻ നിങ്ങൾ ഉണ്ടെന്നും ഇരുവർക്കും തോന്നിത്തരിക ഇപ്പോൾ ശിൽപയ്ക്ക് തൻറെ ജോലി സമ്മർദ്ദത്തോട് അത് എന്തുതന്നെയായാലും അനുഭാവം പ്രകടിപ്പിക്കാൻ കഴിയും കൂടാതെ ശിൽപയുടെ ഏകാന്തതയെക്കുറിച്ച് കിഷോർ അനുഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗിലേക്ക് പോകുക ഇപ്പോൾ നിങ്ങൾക്ക് സംഘർഷത്തിന്റെ മുഴുവൻ എപ്പിസോഡും പുനസംഘടിപ്പിക്കാൻ കഴിയും അത് നിങ്ങൾക്ക് പതുക്കെ പറയാൻ കഴിയും അവർ നിങ്ങളെ വിശ്വസിച്ചുകഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് നിർത്താൻ തുടങ്ങിയതെന്ന് അവരോട് പറയുക ഓരോരുത്തരും മറ്റൊന്ന് അത് ഒരു ചെറിയ നിസ്സാരകാര്യത്തിന് കാരണമായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഗെയിം പോലുള്ള സാഹചര്യമാക്കി മാറ്റാം തുടർന്ന് നിങ്ങൾക്ക് അവരോട് നിർദ്ദേശങ്ങൾ ചോദിക്കാം കൂടുതൽ ട്രിഗറുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈ കാര്യം ക്ഷമിക്കാനും മറക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പോയിന്റ് മാറ്റുമായിരുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോപം നഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾക്ക് ദേഷ്യം വരില്ലായിരുന്നെങ്കിൽ ഈ സാഹചര്യം നിങ്ങൾ എങ്ങനെ പരിഹരിക്കുമായിരുന്നു അവസാനമായി നിങ്ങൾ അവരുമായി ഫലങ്ങൾ ചർച്ച ചെയ്യുന്നു ഇപ്പോൾ അവരുമായി വേർപിരിയലിന്റെ ഫലങ്ങൾ ചർച്ച ചെയ്യുക ഇത് ഇരുവർക്കും ഗുണം ചെയ്യില്ല കിഷോറിന്റെ സമ്മർദ്ദവും തൊഴിൽ സമ്മർദ്ദവും അദ്ദേഹത്തെ കൂടുതൽ ദുരിതത്തിലാക്കും ശിൽപയുടെ കാര്യത്തിൽ അവളെ സ്നേഹിക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിൽ കുടുംബം അവിടെ എത്തി തുടർന്ന് അവളോടൊപ്പം ചേർന്നു തുടർന്ന് വളരെ മെട്രോപൊളിറ്റൻ തരത്തിലുള്ള അന്തരീക്ഷത്തിൽ അവളെ വളരെ സന്തോഷിപ്പിച്ചു അവൻ അവളോടായിരുന്നു പിന്നെ അവനെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയെ കണ്ടെത്തുന്നതിലൂടെ പുതിയ വ്യക്തി വീണ്ടും അവളുടെ ജീവിതത്തിൽ വളരെയധികം സംഘർഷങ്ങളും സമ്മർദ്ദവും സൃഷ്ടിക്കാൻ പോകുന്നു അതിനാൽ ഇത് അവളെ മനസ്സിലാക്കുക ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ പ്രയോജനങ്ങളും നിങ്ങൾക്ക് എടുത്തുകാണിക്കാം വീഡിയോയിൽ ചിലത് കാണിക്കാൻ കഴിയുന്ന ചില സംഭവങ്ങൾ ഓർമ്മിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു അവർ ചില പാർട്ടികളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാവുന്ന ക്ലിപ്പുകൾ അവരെ നോക്കുന്നത് എത്ര മനോഹരവും സ്നേഹപൂർണവുമായിരുന്നു എത്ര സൌഹാർദ്ദപരവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് അവരെ കാണിക്കാൻ കഴിയും അവർ എത്രമാത്രം പരിഗണനയുള്ളവരായിരുന്നു അവർ എല്ലായ്പ്പോഴും സ്വയം വിട്ടുപോയതായിരുന്നു എന്താണ് എന്താണ് സംഭവിച്ചത് എന്താണ് തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവർ മാറിയത് ആ കാര്യങ്ങൾ ഓർമ്മിക്കുക തുടർന്ന് അവ ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അവ ശരിക്കും വിശ്വാസയോഗ്യമാണ് തുടർന്ന് അവർ ശരിക്കും പരസ്പരം സ്നേഹിക്കുന്നു പക്ഷേ അതിനിടയിലുള്ള എന്തോ ഒന്ന് യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന് വില നൽകി ഇപ്പോൾ അത് നീക്കം ചെയ്യുക അവസാനമായി എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ചില പരിഹാരങ്ങൾ താൽക്കാലികമായിരിക്കാം ചില പരിഹാരങ്ങൾ സ്ഥിരമായിരിക്കാം ഇപ്പോൾ താൽക്കാലിക പരിഹാരം നിങ്ങൾക്ക് ആ നിമിഷം പോലും അത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ശിൽപ കുറച്ച് സമയത്തേക്ക് അവളുടെ സുഹൃത്തുക്കളുടെയോ മാതാപിതാക്കളുടെയോ വീട്ടിലേക്ക് പോകുന്നു താൽക്കാലിക വേർപിരിയൽ പോലെ അവൾ വിവാഹമോചനത്തിന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ താൽക്കാലിക വേർപിരിയൽ അത് തന്നെ പ്രശ്നം പരിഹരിക്കും കിഷോറിനെ ജോലിയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ പ്രേരിപ്പിക്കുകയും അവളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഒരുമിച്ചു യാത്ര ചെയ്യാൻ അവരെ സഹായിക്കുക എന്നതാണ് മറ്റൊരു മാർഗം നിങ്ങൾ അവനെ അവധി എടുക്കാൻ പ്രേരിപ്പിക്കുക ശിൽപയെ അവളുടെ എല്ലാ ഗാർഹിക പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കുക അവർ ഒരു റിസോർട്ടിലേക്കോ അവർ ഒരിക്കലും ഒരുമിച്ച് യാത്ര ചെയ്യാത്ത മറ്റൊരു സ്ഥലത്തേക്കോ പോകുന്നു അവിടെ അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കും ഒടുവിൽ ഓരോരുത്തരെയും സഹായിക്കാൻ അവർ തീരുമാനിക്കേണ്ടതുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക മറ്റൊന്ന് പിന്നെ അവർ ഒരുമിച്ച് ജീവിക്കണം ഒരുപക്ഷേ അവർക്ക് ഒരു കുഞ്ഞിനായി ആസൂത്രണം ചെയ്യാമെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അവർ ആസൂത്രണം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു കുഞ്ഞിന് കാരണം അവർ കുഞ്ഞിനെ നോക്കുമ്പോൾ എല്ലാ വൈരുദ്ധ്യങ്ങളും പരിഹരിക്കാൻ കഴിയും തുടർന്ന് അവർ കൂടുതൽ സഹിഷ്ണുത പുലർത്താനും കൂടുതൽ ക്ഷമ കാണിക്കാനും പഠിക്കുകയും പരസ്പരം നൽകാൻ പഠിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആളുകൾ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള മാർഗ്ഗമാണിത് അവർ അടുപ്പമുള്ള ബന്ധത്തിലാണ് പക്ഷേ അവർ ഒരുതരം പരസ്പരവിരുദ്ധമായ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ബന്ധത്തിന് പൂർണ്ണമായ കേടുപാടുകൾ വരുത്തുമായിരുന്നു ഇപ്പോൾ അച്ഛനും മകനും തമ്മിലുള്ള വ്യക്തിപരമായ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരു സാഹചര്യം സംഭവിക്കുന്നു നിങ്ങൾക്ക് ഇതിനകം തന്നെ പശ്ചാത്തലം അറിയാം അതിനാൽ ഒരു വേനൽക്കാല യാത്രയ്ക്ക് പോകുന്നതും തുടർന്ന് പിതാവ് അവനെ അനുവദിക്കാത്തതും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് വിശകലനം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സംഭാഷണത്തിൽ എന്താണ് പ്രചോദിപ്പിക്കുന്നത് ആ വൈരുദ്ധ്യമുള്ള സമയം എന്താണ് ആ ബ്രേക്ക് പോയിന്റ് എന്താണ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ വ്യക്തികളിൽ ഒരാളാണോ എന്ന് നിങ്ങൾ നിയന്ത്രിക്കും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് സംഘർഷത്തിൽ ഏർപ്പെടുന്നു ഇപ്പോൾ ഈ അച്ഛനെ നോക്കൂ നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തു ഒന്നാമതായി താൻ വാഗ്ദാനം ചെയ്തതിന് അദ്ദേഹം ഊന്നൽ നൽകുന്നു ഇപ്പോൾ വൈകാരിക ബന്ധങ്ങൾക്കിടയിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തേണ്ടത് പ്രധാനമാണ് നിങ്ങൾ ഒരു വാഗ്ദാനം നൽകിയാൽ നിങ്ങൾ അത് നിറവേറ്റുന്നു അത് വളരെ ചെറിയ വാഗ്ദാനമാണെങ്കിൽപ്പോലും ഞാൻ ചെയ്യും ഒരു ചോക്ലേറ്റ് നൽകുക നിങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നൽകണം നിങ്ങൾക്ക് ഓ എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾ ഇപ്പോൾ അത് പാസായി അടുത്ത തവണ നമുക്ക് നോക്കാം ഇപ്പോൾ അത് കുട്ടിയെ നിരാശപ്പെടുത്തും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പക്ഷേ അച്ഛൻ പറയുന്നു നിങ്ങൾക്ക് 10 പോയിന്റ് സിപിഐ ലഭിക്കുമെങ്കിൽ ഞാൻ വാഗ്ദാനം ചെയ്തു നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ഈ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വാഗ്ദാനം പാലിക്കുമെന്ന് ഇപ്പോൾ അച്ഛൻ നിർബന്ധിക്കുന്നു ഇപ്പോൾ എനിക്ക് 9 6 ലഭിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് പതുക്കെ നിങ്ങൾ ഇവിടെ വരെ അത് പ്രവർത്തനക്ഷമമല്ലെന്ന് കാണുന്നു പക്ഷേ പിന്നീട് അവൻ പറയുമ്പോൾ അത് 10 ആക്കുന്നത് പോലെയാണ് അതിനാൽ കുട്ടി എന്ന വാക്ക് പോലും ചെറുതല്ല ഇവിടെ പ്രകോപനപരമായ ഈ സന്ദർഭത്തിൽ എല്ലാവരും കരുതിയത് അദ്ദേഹം അത് ആ രീതിയിൽ ഉദ്ദേശിച്ചിരിക്കില്ല പകരം ഇത് പറയുന്നതുകൊണ്ട് അത് 10 ആയി മാറുന്നില്ല എൻറെ പ്രിയപ്പെട്ട മകനേ ഇത് 10 അല്ല പിന്നെ ഇത് പറയുന്നു ഓ പക്വതയില്ലാത്ത കുട്ടാ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് സൂചിപ്പിക്കുന്നതുപോലെയാണ് ഇത് പിന്നെ മകൻ അടുത്തതായി അത് വളരെ ചെറിയ നേരിയ പ്രകോപനമാണ് പക്ഷേ മകൻ പ്രകോപിതനാകുന്നു അവൻ തുടർന്ന് പറയുന്നു നിങ്ങൾ വളരെ മോശക്കാരനായ അച്ഛനാണ് അതായത് അവൻ ഇതിനകം തന്നെ അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പിതാവ് പറയുന്നു അതിനാൽ നിങ്ങൾക്ക് നഷ്ടം ഇപ്പോൾ അവൻ കുറ്റം ഏറ്റെടുക്കുകയും അവൻ തുടങ്ങുകയും ചെയ്തു അവനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ പരാജിതനാണെന്നും പരാജിതനായ ഒരാളോട് ഞാൻ എന്തിന് എന്റെ വാഗ്ദാനം പാലിക്കണമെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ ഒരു വിജയിയാണെങ്കിൽ ഞാൻ എന്റെ വാഗ്ദാനം പാലിക്കും പിന്നെ അവൻ ചെയ്യുന്ന ഏറ്റവും മോശമായ കാര്യം അവനെ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് ആദിത്യയെ നോക്കുമ്പോൾ അദ്ദേഹം 10 പോയിന്റ് നേടിയിട്ടുണ്ട് ഇപ്പോൾ പിതാവ് ഒരിക്കലും കുട്ടിയെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യരുത് അത് അവൻ ചെയ്ത കേടുപാടാണ് അവൻ ഒരു താരതമ്യം മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ മകനും തൻ്റെ തലത്തിൽ അവനെ മറ്റേ പിതാവുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അവൻ അവൻ പറയുന്നു പക്ഷേ അവന്റെ അച്ഛൻ അവനെ സ്നേഹിക്കുന്നു എല്ലായ്പ്പോഴും അവനെ പിന്തുണയ്ക്കുന്നു സ്നേഹം എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്നു എന്ന വാക്ക് നോക്കുക അതിനാൽ ഇവ പോസിറ്റീവ് ആണ് എന്നാൽ ഇവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല എന്നാണ് എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ എന്നെ പിന്തുണയ്ക്കുന്നില്ല നിങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനെയല്ല തുടർന്ന് അടുത്ത ദോഷകരമായ വാക്ക് നിങ്ങൾ എന്നെ വെറുക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു വെറുക്കുക വീണ്ടും മറ്റൊരു ഏറ്റെടുക്കൽ വൈകാരികമായി നിറഞ്ഞ മറ്റൊരു വാക്ക് ഇപ്പോൾ അദ്ദേഹം മറ്റൊരു താരതമ്യം ചെയ്യുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മകളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് മറ്റൊരു മോശമായ കാര്യമാണ് വിവേചനരഹിതമായ സ്നേഹം പ്രകടിപ്പിച്ചതിന് അദ്ദേഹം അവനെ കുറ്റപ്പെടുത്തുന്നു സ്വന്തം കുട്ടികളോട് എന്നിട്ട് അവൻ എന്നോടല്ല എന്ന് പറയുന്നു എല്ലാത്തിനുമുപരി താൻ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അനീതിയാണ് അതെന്ന് ഇപ്പോൾ പിതാവിന് തോന്നുന്നു അവൻ അത് അനീതിയാണ് എല്ലാത്തിനുമുപരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു ഞാൻ നിങ്ങൾക്കായി വളരെയധികം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കോളേജിലെ ഫീസ് അടയ്ക്കാൻ ഞാൻ എന്റെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ചു ഇപ്പോൾ നിങ്ങൾ അവൻ നന്ദികെട്ട നായയ്ക്ക് നൽകുന്നു എന്ന ഏറ്റവും കുറ്റകരമായ പരാമർശം നന്ദികെട്ടവൻ തന്നെ ഏറ്റവും മോശമാണെങ്കിലും അവൻ നായ എന്ന അധിക്ഷേപകരമായ വാക്കും ഉപയോഗിക്കുന്നു തുടർന്ന് അടുത്ത അവസാന ട്രിഗർ അവൻ ദേഷ്യപ്പെടുന്നു അവന് തന്റെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല കോപത്തിൽ ആവേശത്തോടെ അവൻ അവനെ അടിക്കുന്നു അതിനാൽ ദേഷ്യപ്പെടുക മാത്രമല്ല അവനെ അടിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മകൻ അവൻ കുറച്ച് വിധേയനായതിനാൽ അവൻ കരയാൻ തുടങ്ങുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഒരു വൈകാരിക വിസ്ഫോടനമാണ് തുടർന്ന് അദ്ദേഹം മറ്റൊരു ദോഷകരമായ പരാമർശം നടത്തുന്നുഃ പറയുന്നു നിങ്ങൾക്ക് എന്നെ ഒരിക്കലും മനസ്സിലാകില്ല ഒരിക്കലും മനസ്സിലാകില്ല ഒരിക്കലും മനസ്സിലാകില്ല പിന്നെ അവൻ വീണ്ടും പറയുന്നു ഞാൻ നിന്നെ വെറുക്കുന്നു ഞാൻ ഇപ്പോൾ വീട് വിടുകയാണ് ഞാൻ പോകുന്നു ഇപ്പോൾ വീട്ടിൽ അവൻ പോകാൻ പോകുകയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ അമ്മയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ആളെ തടയും പിന്നെ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും ഇപ്പോൾ ഇവിടെ അനുകൂലമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കുക അതിനാൽ നിങ്ങൾക്ക് അവരെ പ്രത്യേക മുറികളിലേക്ക് കൊണ്ടുപോകാം അവരുമായി വെവ്വേറെ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുമിച്ച് ഒരു ക്ഷേത്രമോ മാളോ പോലുള്ള പ്രിയപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുക അവിടെ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് ശാന്തമായ സ്ഥലത്ത് ഇരിക്കാനും തുടർന്ന് പരസ്പരം സംസാരിക്കാനും കഴിയും ഇപ്പോൾ മസ്തിഷ്കപ്രക്ഷോഭംഃ നിങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കാം എന്നിട്ട് അച്ഛനെ നോക്കൂ എന്ന് പറയാം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ഇത്തവണ നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയില്ല അത് വസ്തുതയാണ് എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ശ്രമിക്കുന്നു ഈ സാഹചര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് എന്ന് പറയാം ബാലൻസ് പക്ഷേ അവന് നിങ്ങളെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ട ഒരു പ്രത്യേക വിഷയത്തിനുള്ള ട്യൂഷൻ ഇപ്പോൾ ഇത് കൂടുതൽ ആശയങ്ങൾ ശേഖരിക്കാനും വസ്തുതകൾ നേടാനും ശ്രമിക്കുന്ന മസ്തിഷ്കപ്രക്ഷോഭമാണ് ആരാണെന്ന് അറിയുക ആ സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ ഇല്ലാതിരുന്നതുപോലെ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയും ഒരുപക്ഷേ നിങ്ങൾ ഇത് പറയാൻ പാടില്ലായിരുന്നു അതിനാൽ ഇത് അവനെ പ്രേരിപ്പിച്ചു ദേഷ്യവും ഒരുപക്ഷേ നിങ്ങളും ഇത് പറയുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു അതിനാൽ മുൻവിധികളില്ലാതെ രണ്ടും ശ്രദ്ധിക്കുക കുട്ടിയെ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് പോലെയുള്ള പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രശ്നം മകൻ ഒരു യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതാണ് പ്രശ്നം ഇപ്പോൾ അച്ഛൻ സ്വന്തം പ്രതീക്ഷിതമായ ആഗ്രഹങ്ങൾ കൊണ്ടും ചിലപ്പോഴൊക്കെ കൊണ്ടും സാഹചര്യം വഷളാക്കിയിരിക്കുന്നു പോലെ എന്തുകൊണ്ടാണ് അവൻ ദേഷ്യപ്പെട്ടതെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് മകന് പ്രകടനം നടത്താൻ കഴിയാത്തതുകൊണ്ടാണോ അതോ അയാളുടെ ഉള്ളിൽ എന്തോ ഉണ്ടോ തൻ്റെ പൂർത്തീകരിക്കപ്പെടാത്ത ചില സ്വപ്നങ്ങൾ തൻ്റെ മകന് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ അദ്ദേഹം അത് പരസ്പരബന്ധിതമാക്കാൻ ശ്രമിക്കുകയാണോ അത് കണ്ടെത്താൻ മാത്രമാണ് ശ്രമിച്ചത് എന്നിട്ട് നിങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ച് കോപം നിയന്ത്രിക്കുക അവർക്ക് നല്ല ഭക്ഷണം നൽകുക ഒരുപക്ഷേ അവർക്ക് ഒരു പാറ്റ് നൽകുക കെട്ടിപ്പിടിക്കുക തുടർന്ന് ആശയവിനിമയം ഒഴിവാക്കുക ബ്ലോക്കർമാർ ഇനി പരസ്പരം കുറ്റപ്പെടുത്താൻ അനുവദിക്കരുത് സഹാനുഭൂതിയുള്ള കഴിവുകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് അവരെ അറിയിക്കുക അതേസമയം അവരും പരസ്പരം വേദനിപ്പിക്കാൻ തുടങ്ങരുതെന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇപ്പോൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗിൽ സാഹചര്യം എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിൽ ഒഴിവാക്കാമായിരുന്നുവെന്ന് അവരോട് പറയുക എങ്ങനെയാണ് ആദ്യം താരതമ്യം ചെയ്യുന്നത് നിർത്തുന്നത് എന്നിട്ട് അച്ഛനോട് മറ്റേ കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങിയതുപോലെ പറയുകയും തുടർന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു 6 ഉം 10 ഉം തമ്മിൽ അത്ര വലിയ വ്യത്യാസമില്ലെന്ന് സിപിഐ അദ്ദേഹത്തോട് പറയുമ്പോൾ അത് ഏതാണ്ട് അടുത്താണ് ഇത് ഒരു വലിയ വ്യത്യാസമല്ലെന്നും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്ഷമിക്കാമെന്നും നിങ്ങൾക്ക് അവനെ ബോധ്യപ്പെടുത്താം അതിനായി നിങ്ങളുടെ കുട്ടി വാഗ്ദാനം പാലിക്കാൻ ശ്രമിക്കുക പക്ഷേ സാമ്പത്തിക കാര്യം ഒരു പ്രശ്നമാണെങ്കിൽ അതിനാൽ അത് ഒരു പ്രത്യേക പ്രശ്നമാണ് അതിനാൽ അതുമായി സംയോജിപ്പിക്കരുത് അപ്പോൾ നിങ്ങളേക്കാൾ പ്രധാനമാണ് മാർക്ക് നേടുകയെന്ന് നിങ്ങൾക്ക് അവനെ ബോധ്യപ്പെടുത്താനും കഴിയും മകൻറെ ക്ഷേമം മാനസികമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അയാൾക്ക് തോന്നുന്നുവെങ്കിൽ വിഷാദം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്ന് ഓടിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വീടും അവന് നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ നിങ്ങളോടുള്ള അദ്ദേഹത്തിൻറെ സ്നേഹവും വാത്സല്യവും നിങ്ങൾക്ക് എങ്ങനെ തിരികെ ലഭിക്കും ഇപ്പോൾ ഫലങ്ങൾ ചർച്ച ചെയ്യുക നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന എവിടെയെങ്കിലും പോകാം പക്ഷേ നിങ്ങൾക്ക് കഴിയും ഒരുപക്ഷേ നമുക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോകാൻ കഴിയില്ലെന്നും എന്നാൽ ഇന്ത്യയിലെ വളരെ മനോഹരമായ ചില സ്ഥലങ്ങളിലേക്ക് പോകാമെന്നും അവരോട് പറയുക ഉദാഹരണത്തിന് നമുക്ക് ലഡാക്കിലേക്ക് പോകാം നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം അങ്ങനെ അച്ഛന്റെ പക്കൽ അത്രയും പണമുണ്ട് ഡാഡിയുടെ കയ്യിൽ പണമില്ലെങ്കിലും എനിക്ക് കുറച്ച് സമ്പാദ്യമുണ്ട് ഞാൻ അത് ഈ യാത്രയ്ക്കായി ഉപയോഗിക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരം തിരഞ്ഞെടുക്കുക ശരിയായ ധാരണയോടെയാണ് വീട്ടിൽ താമസിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ മകനെ ബോധ്യപ്പെടുത്തണം പുറത്ത് നിൽക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് ഇപ്പോൾ പുറത്തുപോകുമ്പോൾ അത് ആവേശകരമായ പ്രതികരണം പോലെയാണെന്ന് നിങ്ങൾ അവനോട് പറയണം പക്ഷേ നിങ്ങൾ അത് ചെയ്യണം അത് അത്ര എളുപ്പമല്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തുക എന്നിട്ട് അവർക്ക് പരസ്പരം ആത്മാർത്ഥമായി സഹതാപം തോന്നുകയും തുടർന്ന് അവർ ക്ഷമ ചോദിക്കുന്നുണ്ടോ എന്ന് പറയുകയും ചെയ്യുക അല്ലെങ്കിൽ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു അതിനാൽ അത് ഒരുതരം വിജയ വിജയ സാഹചര്യത്തിൽ അവസാനിക്കും നടന്നതായിരിക്കാവുന്ന രസകരമായ ചില സംഭവങ്ങൾ കഥകൾ എന്നിവയും നിങ്ങൾക്ക് ഓർമ്മിക്കാം കുട്ടിക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതുപോലെ നിങ്ങൾക്ക് മകനോട് പറയാൻ കഴിയും നോക്കൂ മകൻ എത്രത്തോളം കൈവശമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിനൊപ്പമായിരുന്നുഃ നിങ്ങൾ എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ മടിയിൽ ഉറങ്ങുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ നെഞ്ചിൽ ഉറങ്ങുമായിരുന്നു പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മകളെ മറ്റേ മടിയിൽ ഇരിക്കാൻ പോലും അനുവദിക്കില്ല നിങ്ങൾ എല്ലായ്പ്പോഴും അത്രയേറെ സ്വാധീനശക്തിയുള്ളവർ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നിങ്ങൾക്ക് മോശമായി തോന്നുമായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കെങ്ങനെയാണ് ഇത് നിങ്ങളുടെ അച്ഛനോട് പറയാൻ കഴിയുന്നത് അതേ കാര്യം നിങ്ങൾക്ക് പിതാവിനോടും പറയാൻ കഴിയും നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും നിങ്ങൾ വളരെ വാത്സല്യമുള്ളവരാണ് അവൻ ജനിച്ചപ്പോൾ വളരെ സന്തുഷ്ടനായിരുന്നു തുടർന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ സമയം ചെലവഴിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക സ്നേഹം ഉണ്ടെന്നും അത് ഉണ്ടാകാൻ പാടില്ലെന്നും അവരെ ബോധ്യപ്പെടുത്തുക ഈ നിസ്സാര സാഹചര്യം കാരണം പോകുക ഞങ്ങൾ അവരെ വീണ്ടും വിൻ വിൻ സാഹചര്യത്തിലേക്ക് തിരികെ കൊണ്ടുവരും ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഓർക്കുക നിങ്ങൾ ഒരു വിൻ വിൻ പരിഹാരം നൽകുമ്പോൾ പരസ്പര ബഹുമാനത്തിന്റെ തീവ്രമായ ഒരു വികാരമുണ്ട് അവസാനം രണ്ട് കേസുകളിലും അവർ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കണം ഓരോ സംഘർഷവും പരിഹരിക്കപ്പെടുന്നതിനനുസരിച്ച് മുമ്പും സ്നേഹവും കൂടുതൽ ആഴത്തിൽ വളരേണ്ടതുണ്ട് അതായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മുദ്രാവാക്യം അതിന്റെ അവസാനം ബന്ധത്തിന്റെ തീവ്രത വർദ്ധിക്കണം പക്ഷേ അത് കുറയരുത് നിങ്ങൾക്ക് ഒരു മധ്യസ്ഥനെന്ന നിലയിലോ അല്ലെങ്കിൽ നിങ്ങൾ സംഘർഷങ്ങളുടെ ഭാഗമാണെങ്കിലോ അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ രണ്ട് തരത്തിലും കുഴപ്പമില്ല ഇപ്പോൾ ഇത് വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചാണ് അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ കൂടുതൽ നിർദ്ദേശങ്ങളുമായി വരും ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ഇത് നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മികച്ച പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ മികച്ച നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് അത് ഫോറത്തിൽ പങ്കിടാനും അതിനെക്കുറിച്ച് അറിയിക്കാനും കഴിയും ഈ വീഡിയോ കണ്ടതിന് നന്ദി എന്നിട്ട് നിങ്ങൾക്ക് വളരെ സംഘർഷരഹിതമായ ഒരു ദിവസം ആശംസിക്കുന്നു കുറഞ്ഞത് ഇന്നെങ്കിലും

നന്ദിയും പറഞ്ഞു